സൈക്ലിക് ഷെഡ്യൂളർ എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ലളിതവുമായ റിയൽ ടൈം ടാസ്ക് ഷെഡ്യൂളറുകളിലൊന്ന് നമ്മൾ നോക്കിയിരുന്നു പ്രോഗ്രാമർ തീരുമാനിക്കേണ്ട ഡിസൈൻ പാരാമീറ്ററുകൾ നമ്മൾ കണ്ടു ഒന്നു എളുപ്പത്തിൽ സെറ്റ് ചെയ്യാവുന്ന പ്രധാന സൈക്കിൾ ആണ് അതായത് പീരിയോഡിക് ടാസ്ക്കുകളുടെ ടാസ്ക് പീരിയഡുകളുടെ LCM പിന്നെ മൈനർ സൈക്കിൾ അതു ഫ്രെയിംFrame എന്നും അറിയപ്പെടുന്നു അതിനോടൊപ്പം അതു ചില പരിമിതികൾ നിറവേറ്റേണ്ടതുണ്ട് ഉദാഹരണത്തിന് നമുക്ക് 3 പീരിയോഡിക് ടാസ്ക്കുകൾ ഉണ്ട് T1 എക്സിക്യൂഷൻ സമയം 1 ഉം കാലയളവ് 4 ഉം ഡെഡ്ലൈൻ 4 ഉം ആണ് ടാസ്ക് 2 എക്സിക്യൂഷൻ സമയം 1 ഉം പിരീഡും ഡെഡ്ലൈൻ 5 യൂണിറ്റുകളാണ് ടാസ്ക്കുകൾ 3 നിർവ്വഹണ സമയം 1 5 യൂണിറ്റാണ് ടാസ്ക് കാലയളവും ഡെഡ്ലൈൻ 20 യൂണിറ്റാണ് മുകളിലുള്ളവയുടെ ഷെഡ്യൂൾ നമ്മൾ നേടേണ്ടതുണ്ട് നമ്മൾ ഷെഡ്യൂൾ നേടിക്കഴിഞ്ഞാൽ അത് ഒരു പ്രധാന സൈക്കിളിന്റെ ഷെഡ്യൂളായി സ്റ്റോർ ചെയാൻ കഴിയും തുടർന്ന് ഓരോ ഫ്രെയിമിലും ഇന്ററപ്റ്റിൽ സൈക്ലിക് എക്സിക്യൂട്ടീവ് അടുത്ത ടാസ്ക് ഫെച്ചു ചെയ്തു കൊണ്ടിരിക്കും T1 T2 T3 എന്നീ 3 ടാസ്ക്കുകളുടെ പ്രധാന സൈക്കിളിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ടാസ്ക് പിരീഡുകൾ 4 5 20 എന്നിങ്ങനെ ആണ് പ്രധാന സൈക്കിൾ T1 T2 T3 എന്നിവയുടെ LCM ആണ് ഇത് 20 പ്രധാന സൈക്കിൾസ് നൽകുന്നു അടുത്ത കാര്യം ഫ്രെയിം സൈസ് തിരഞ്ഞെടുക്കുക അത് 3 നിയന്ത്രണങ്ങൾ പാലിക്കണ ആദ്യത്തെ നിയന്ത്രണം ഫ്രെയിം സൈസ് പ്രധാന സൈക്കിൾ വിഭജിക്കണം പ്രധാന സൈക്കിൾ 20 ആണ് അത് നമുക്ക് ചില ഡിസ്ക്രീറ്റ് വാല്യൂ നൽകുന്നു നമുക്ക് ലഭിക്കുന്ന ഫ്രെയിം വലുപ്പങ്ങൾ 1 2 4 5 10 20 എന്നിവയാണ് രണ്ടാമത്തെ നിയന്ത്രണം ഫ്രെയിം വലുപ്പത്തിന് ഒരു ലോവർ ബൌണ്ട് നിശ്ചയിക്കും അതായത് ഓരോ ടാസ്കിന്റെയും നിർവ്വഹണ സമയം ഒരു ഫ്രെയിമിൽ ഉൾക്കൊള്ളണം അത് നമുക്ക് നൽകുന്ന ഓരോ ടാസ്ക് നിർവ്വഹണ സമയത്തേക്കാളും ഫ്രെയിം സൈസ് കൂടുതലായിരിക്കണം 1 1 1 5 ന് എക്സിക്യൂഷൻ സമയം കുറഞ്ഞത് 2 ആയിരിക്കണം അതിനാൽ 1 നിരസിക്കപ്പെടുന്നു നമ്മൾ 2 4 5 10 20 നും ഇടയിൽ തിരഞ്ഞെടുക്കണം മൂന്നാമത്തെ പരിമിതി ഒരു ടാസ്കിന്റെ വരവും ഡെഡ്ലൈനും തമ്മിൽ വ്യക്തമായ ഒരു ഫ്രെയിം ഉണ്ടായിരിക്കണമെന്നും ഏറ്റവും വേർസ്റ് കേസ്ഇന് ഇത് കുഴപ്പം ഇല്ലെകിൽ അത് എല്ലാ കേസുകളിലും നിലനിൽക്കുമെന്നും പറയുന്നു ഓരോ ടാസ്ക്കിനും നമുക്ക് 2F GCD F p i di ചെക്ക് ചെയുന്നു ഇവിടെ എല്ലാ 3 ടാസ്ക്കുകളും വ്യത്യസ്ത ഫ്രെയിം വലുപ്പങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് ഫ്രെയിം വലുപ്പം 2 ഉപയോഗിച്ച് നമുക്ക് ആരംഭിക്കാം പ്രധാന സൈക്കിൾ 20 ഉം ഫ്രെയിം വലുപ്പങ്ങൾ 2 4 5 10 ഉം ആണ്1 എടുകുന്നില്ല കാരണം അത് ടാസ്ക് എക്സിക്യൂഷനുകൾ നടത്തുകയില്ല ഫ്രെയിം വലുപ്പം 2ഇന് അതായത് മൂന്നാമത്തെ നിയന്ത്രണത്തിന് 2F GCDF p1 di ടാസ്ക് ഒന്നിന്റെ കാലാവധി 4 ആണ് അതിനാൽ 4 2 2 2 ≤ d1 ടാസ്ക് ഒന്നിന്റെ സമയപരിധി 4 ആണ് അത് കൈവശം വച്ചിരിക്കുന്നതും കുഴപ്പമില്ല ഫ്രെയിം വലുപ്പം 2 ഉള്ള രണ്ടാമത്തെ ടാസ്ക്കിനായി പരിശോധിക്കുമ്പോൾ നമ്മൾ സമാനമായത് പിന്തുടരും ഇവിടെ GCD F 5 F 2 അങ്ങനെ 4 1 ≤ 5 നിലയിൽ ഇതു ശരി ആണ് അതുപോലെ തന്നെ മൂന്നാം ടാസ്ക് നമ്മൾ പരിശോധികുനു F 20 F 2 ഉം അതിനാൽ GCD 2 ഉം ആണ് വീണ്ടും വരുന്നത് അതിനാൽ 2 സാധ്യമായ ഫ്രെയിം വലുപ്പമാണ് കൂടാതെ ഷെഡ്യൂളിന് ആവശ്യമായ ഫ്രെയിമുകളുടെ എണ്ണത്തെക്കുറിച്ചാണ് ഇനിപ്പറയുന്നവ ഫ്രെയിം വലുപ്പങ്ങൾ 4 5 20 എന്നിവയാണ് ഒരു പ്രധാന സൈക്കിളിയിൽ മൂന്നാമത്തെ ടാസ്ക് ഒരു തവണയും രണ്ടാമത്തെ ടാസ്ക് 4 തവണയും ആദ്യത്തെ ടാസ്ക് 5 തവണയും സംഭവിക്കും 1 5 4 1 9 ഉം പിന്നെ 9 1 10 ഞങ്ങൾക്ക് കുറഞ്ഞത് 10 ഫ്രെയിമുകളെങ്കിലും ആവശ്യമാണ് അതിനാൽ ഇത് F 2 എടുക്കുനു ഫ്രെയിം വലുപ്പം 4 നായി ടാസ്ക് വരവിനും സമയപരിധിക്കും ഇടയിൽ വ്യക്തമായ ഒരു ഫ്രെയിം ഉണ്ടായിരിക്കണമെന്ന് നമുക്ക് ക്കറിയാം ഏറ്റവും വേർസ്റ് കേസ് 2 F GCD F p i എന്ന പദപ്രയോഗം നൽകുന്നു ഇവിടെ രണ്ടാമത്തെ ടാസ്ക്കിനായി ഇത് എടുകുന്നില്ല ഒരു പ്രധാന സൈക്കിളിൽ 5 ഫ്രെയിമുകൾ ലഭ്യമാണ് കാരണം ഫ്രെയിം വലുപ്പം 4 ആണ് അതിനാൽ 5 ഫ്രെയിമുകൾ ലഭ്യമാകും കൂടാതെ 3 ടാസ്ക്കിനായി നമുക്ക് 10 ഫ്രെയിമുകൾ ആവശ്യമാണ് 4 ന് തുല്യമായ F ആദ്യം അനുയോജ്യമല്ല ഇത് സമയപരിധി ലംഘിക്കുന്നു ഷെഡ്യൂൾ വികസിപ്പിക്കുന്നതിന് മതിയായ ഫ്രെയിമുകൾ ലഭ്യമല്ല അതിനാൽ ഫ്രെയിം വലുപ്പം 5 10 മുതലായവ തിരയുന്നതിൽ അർത്ഥമില്ല കാരണം ലഭ്യമായ ഫ്രെയിമുകളുടെ എണ്ണം ഇപ്പോഴും കുറവായിരിക്കും ഫ്രെയിം സൈസ് 2 തിരഞ്ഞെടുക്കാവുന്ന ഒന്നാണ് നമുക്ക് ഫ്രെയിം സൈസ് 2 ലഭിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഷെഡ്യൂൾ എളുപ്പത്തിൽ വികസിപ്പിക്കാൻ കഴിയും അതായത് ഏത് ഫ്രെയിമിലാണ് ഏത് ടാസ്ക് നിർവ്വഹിക്കും സാധ്യമായ എല്ലാ ഫ്രെയിം വലുപ്പങ്ങളും നമ്മൾ പരീക്ഷിക്കുകയും ഫ്രെയിം വലുപ്പങ്ങളൊന്നും അനുയോജ്യമല്ലെന്ന് കണ്ടെത്തുകയും ചെയ്താൽ ഈ സാഹചര്യത്തിൽ പ്രധാന കുറ്റവാളി വലിയ എക്സിക്യൂഷൻ ടൈം എടുക്കുന്ന ഒരു ടാസ്ക് ആണ് ഉദാഹരണത്തിന് 3 4 5 എന്നിങ്ങനെ നിർവഹണ സമയം ഉള്ള നിരവധി ടാസ്കുകൾ ഉണ്ടെങ്കിൽ അതുപോലെ 20 100100 എന്നിങ്ങനെ ഒരെണ്ണവും വ്യക്തമായും ഫ്രെയിം വലുപ്പം ഇവിടെ വലുതായിരിക്കണം കുറഞ്ഞത് 20 എങ്കിലും അതിന്ടെ ഒപ്പം ഫ്രെയിമുകളുടെ എണ്ണം കുറയും പ്രധാന സൈക്കിൾ 100 ഫ്രെയിമുകളുടെ എണ്ണം 5 ആയി മാറുന്നുവെന്നും മാത്രമല്ല സമയപരിധി നിയന്ത്രണവും ലംഘിക്കപ്പെടുമെന്നു പറയട്ടെ വലിയ എക്സിക്യൂഷൻ സമയമുള്ള ഒരു വലിയ ടാസ്ക് ഉള്ളപ്പോൾ നമ്മൾ എങ്ങനെ എത്തിച്ചേരും നമ്മളുടെ പ്രോഗ്രാം മാറ്റിയെഴുതേണ്ടതുണ്ട് കൂടാതെ ഈ ടാസ്ക് ചെറിയ ടാസ്കുകളായി വിഭജിക്കേണ്ടതുണ്ട് 10 ആയി നമ്മൾ അതിനെ വിഭജിച്ചുവെന്ന് കരുതുക അതിനോടൊപ്പം സാധ്യമായ ചെറിയ ടാസ്ക് വലുപ്പം തീരുമാനിക്കാനും അതേ ഒരേ ടാസ്ക് 2ൽ വിഭജിക്കേണ്ടതുണ്ട് വ്യക്തമായും ടാസ്ക്കിന്റെ അവസാനം ഉറപ്പാക്കണം നമുക്ക് T1 നെ T1 ആ എന്നും T1b എന്നും നിർമ്മിക്കാം T1a യുടെ അവസാനത്തിൽ അത് സിസ്റ്റത്തെ ഒരു കണ്സിസ്ടെന്റ് സ്റ്റേറ്റ്ഇൽ നിർത്തണം അവർ നിർവ്വഹിക്കുന്ന മറ്റ് ടാസ്കുകൾ പോലും T1 Bന് സമാനമായ പൊരുത്തമില്ലാത്ത വാല്യൂസ് നേടരുത് നമുക്ക് സാധ്യമായ ഫ്രെയിം സൈസ്ഒന്നും ലഭിക്കാത്തപ്പോഴെല്ലാം ദൈർഘ്യമേറിയ എക്സിക്യൂഷൻ സമയങ്ങൾ ഉപയോഗിച്ച് ടാസ്ക്കുകൾ വിഭജിക്കേണ്ടതുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല സൂചന നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഫ്രെയിം വലുപ്പത്തിൽ വീണ്ടും പ്രവർത്തിക്കുകയും വളരെ പ്രായോഗിക ഷെഡ്യൂൾ വികസിപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്കുകയും ചെയ്യുന്നത് വളരെ പ്രയാസകരമല്ല ഇത് ഒരു ആവർത്തന പ്രക്രിയയാണെന്ന് നമുക്ക് കാണാൻ കഴിയും ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ശരിയായ ഫ്രെയിം സൈസ് നമുക്ക് ലഭിക്കുന്നില്ല അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ടാസ്ക്കുകൾ പുനർനിർമിക്കുന്നു അതിന്ടെ ഒപ്പം പ്രായോഗിക ഫ്രെയിം വലുപ്പം കണ്ടെത്തുകയും വേണം ഈ സൈക്കിക് ഷെഡ്യൂളറിൽ നമ്മൾ ഉപസംഹരിക്കുന്നു ഇത് ലളിതവും കാര്യക്ഷമവുമായ ടാസ്ക് ഷെഡ്യൂളറാണ് എന്നതാണ് ശക്തമായ കാര്യം എക്സിക്യൂട്ടീവ് പ്രോഗ്രാം വളരെ ചെറുതാണ് ഷെഡ്യൂൾ ടേബിൾ പരിശോധിക്കേണ്ടതുണ്ട് ഓരോ തവണയും ഫ്രെയിം ഇന്റെര്പ്ട് ചെയ്യപ്പെടുമ്പോൾ അത് ഷെഡ്യൂൾ ടേബിളിൽ നിലവിലുള്ള ടാസ്ക് പ്രവർത്തിപ്പിക്കുന്നു ടേബിൾ പ്രവർത്തിപ്പിക്കുന്ന ഷെഡ്യൂളറിനേക്കാൾ ഇത് കൂടുതൽ കാര്യക്ഷമമാണ് കാരണം ഒരു ടൈമർ ആവർത്തിച്ച് ക്രമീകരിക്കേണ്ടത് ഇവിടെ ആവശ്യമില്ല സമാരംഭിക്കൽ സമയത്ത് മാത്രമേ ടൈമർ സെറ്റ് ചെയേണ്ടത് ഉള്ളു സൈക്ലിക് ഷെഡ്യൂളറിനായുള്ള നെഗറ്റീവ് പോയിന്റുകൾ ചുവടെ ചേർക്കുന്നു ആദ്യ പോയിന്റ് ടാസ്ക്കുകളുടെ എണ്ണം ചെറുതായിത്തീരുന്ന ഒരു നിസ്സാരമല്ലാത്ത ആപ്ലിക്കേഷൻ പോലെ വലുതായിരിക്കുമ്പോൾ ഷെഡ്യൂൾ വികസിപ്പിക്കുക എന്നതാണ് അവിടെ ടാസ്ക്കുകളുടെ എണ്ണം 10 അല്ലെങ്കിൽ 15 ആണെന്ന് നമുക്ക് പറയാം തുടർന്ന് പ്രധാന സൈക്കിൾ വികസിപ്പിക്കുന്നവയെല്ലാം സ്വമേധയാ നോക്കുക കാൻഡിഡേറ്റ് ഫ്രെയിം കണ്ടെത്തുക സൈക്കിളുകളും തുടർന്ന് എല്ലാ നിയന്ത്രണങ്ങളും പരിശോധിക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ നിസ്സാരമല്ലാത്തതും ആവർത്തനം ആവശ്യമുള്ള ടാസ്കും ആണ് ജോലികളുടെ എണ്ണം വർദ്ധിക്കുപോൾ ഫ്രെയിം വലിപ്പം കണ്ടെത്താൻ ഡിസൈനർ വളരെ ബുദ്ധിമുട്ടുണ്ടാകും അതാണ് ഈ ഷെഡ്യൂളർന്ടെ ഒരു പ്രശ്നം രണ്ടാമത്തേത് നമുക്ക് ഒരു പുതിയ ഉപകരണം സംയോജിപ്പിക്കണമെങ്കിൽ പരിഷ്ക്കരിക്കാനും പരിപാലിക്കാനും പ്രയാസമാണ് അതിനാൽ ഒരു ടാസ്ക്കിന്റെ നിർവ്വഹണ സമയം ദൈർഘ്യമേറിയതാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ ഷെഡ്യൂൾ പൂർണ്ണമായും പുനർനിർമ്മിച്ചു ആ ഷെഡ്യൂളിനായി നമ്മൾ ഷെഡ്യൂൾ മാറ്റുകയല്ല മുഴുവൻ ഷെഡ്യൂളിനും നമ്മൾ പുനർനിർമ്മിക്കേണ്ടതുണ്ട് പുതിയ ഫ്രെയിം വലുപ്പം മുതലായവ രണ്ടാമത്തേത് നമുക്ക് ഒരു പുതിയ ഉപകരണം സംയോജിപ്പിക്കണമെങ്കിൽ പരിഷ്ക്കരിക്കാനും പരിപാലിക്കാനും പ്രയാസമാണ് അതിനാൽ ഒരു ടാസ്ക്കിന്റെ നിർവ്വഹണ സമയം ദൈർഘ്യമേറിയതാണ് പല ആപ്ലിക്കേഷനുകളിലും നമുക്ക് വിരളവും അപെരിയോഡിക്തുമായ ടാസ്കുകൾ ഉണ്ട് കൂടാതെ വിരളവും അപെരിയോഡിക്തുമായ ടാസ്കുകൾ കൈകാര്യം ചെയ്യാൻ വ്യക്തമായ മാർഗ്ഗമില്ല സൈക്ലിംഗ് ഷെഡ്യൂളിന്ടെ കുറവുകൾ ഇതൊക്കെയാണെന്നു നമ്മൾ ഓർക്കണം ക്ലോക്ക് ഡ്രൈവ്എൻ ഷെഡ്യൂളറുകൾ ലളിതവും ലളിതമായ ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്നതുമായതിനാൽ കൂടുതൽ സങ്കീർണ്ണമായ ഷെഡ്യൂളറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം പക്ഷേ ആപ്ലിക്കേഷനുകൾ കൂടുതൽ സങ്കീർണ്ണമാകുമ്പോൾ ഇവന്റ് ഡ്രൈവ്എൻ ഷെഡ്യൂളറുകളെ വിന്യസിക്കേണ്ടതുണ്ട് ഇവന്റ് ഡ്രൈവ്എൻ ഷെഡ്യൂളറുകളുടെ പ്രധാന ക്ലാസുകളും പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ക്ലോക്ക് ഡ്രൈവ്എൻ ഷെഡ്യൂളറുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവ കൂടുതൽ പ്രാവീണ്യമുള്ളവയാണ് ക്ലോക്ക് ഡ്രൈവ്എൻ ഷെഡ്യൂളറിന് ഒരു ഷെഡ്യൂൾ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിലും തന്നിരിക്കുന്ന ടാസ്ക് സെറ്റിനായി ഇത് എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് ഇതിനർത്ഥം ഇവന്റ് ഡ്രൈവ്എൻ ഷെഡ്യൂളർ ഉപയോഗിച്ച് സാധ്യമായ ഷെഡ്യൂൾ ലഭിക്കും ഇവ കൂടുതൽ പ്രഗത്ഭരാണ് ഇതിന് സ്പോറാടികും അപെരിയോഡിക്തുമായ ടാസ്കുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും സ്വാഭാവികമായും ഇവ കൂടുതൽ സങ്കീർണ്ണമായ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നു എന്നാൽ ഇവ ക്ലോക്ക് ഡ്രൈവ്എൻ ഷെഡ്യൂളറിനെപ്പോലെ കാര്യക്ഷമമല്ല ഷെഡ്യൂളറുകളുടെ കോഡ് വലുപ്പത്തിലും ഷെഡ്യൂളർമാരുടെ നിർവ്വഹണ സമയത്തിലും ഇവന്റ് ഡ്രൈവ്എൻ ഷെഡ്യൂളർമാർക്കുള്ള ഷെഡ്യൂളിംഗ് പോയിന്റുകൾ പരിഗണിക്കുന്നിടത്തോളം ഷെഡ്യൂളിംഗ് പോയിന്റ് വളരെ അടിസ്ഥാനപരമായ ഒരു ആശയമാണ് ടാസ്ക് ഷെഡ്യൂളർ സജീവമാകുന്ന സമയം പ്രവർത്തിക്കാൻ തുടങ്ങുകയും അടുത്തതായി ഏത് ടാസ്ക് അയയ്ക്കണമെന്ന് അല്ലെങ്കിൽ നിർവ്വഹണം ആരംഭിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന സമയമാണ് ഷെഡ്യൂളിംഗ് പോയിന്റ് ഇവന്റ് ഡ്രൈവ്എൻ ഷെഡ്യൂളിംഗ് പോയിന്റ ആണ് നമ്മുടെ പരിഗണനയിൽ ഇപ്പോൾ ഉള്ളത് രണ്ട് ഷെഡ്യൂളിംഗ് പോയിന്റ ആണ് ഉള്ളത് അതിൽ ഒരെണം ടാസ്ക് പൂർത്തികരണമാണ് ഒരു ടാസ്ക് പ്രവർത്തിക്കുമ്പോഴെല്ലാം അത് ഒരു ഷെഡ്യൂളിംഗ് പോയിന്റ് നിർവചിക്കുന്ന ഷെഡ്യൂളറിന്റെ വിഷം പൂർത്തിയാക്കുകയും ഷെഡ്യൂളർ പ്രവർത്തിക്കാൻ തുടങ്ങുകയും അടുത്തത് ഏത് ടാസ്ക് പ്രവർത്തിപ്പിക്കണമെന്ന് തീരുമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു മറ്റൊരു ഷെഡ്യൂളിംഗ് പോയിന്റ് മറ്റൊരു തരം ഷെഡ്യൂളിംഗ് പോയിന്റ് വരവ് ഇവന്റുകളാണ് ഒരു ടാസ്ക് എത്തുമ്പോൾ ഒരു തടസ്സം മൂലമാണ് ടാസ്ക് എത്തുന്നതെന്ന് നിങ്ങൾക് അറിയാം ഒരു ക്ലോക്ക് ഇന്ററപ്റ്റ് ഒരു പീരിയോഡിക് ടൈമർ ഇന്ററപ്റ്റ് കാരണം ഒരു പീരിയോഡിക് ടാസ്ക് വരാം ഓരോ തവണയും പീരിയോഡിക് ഇന്റെര്പ്ട് സംഭവിക്കുമ്പോൾ ആ ടാസ്ക്ന്റെ അനുബന്ധ ഇൻസ്റ്റൻസ്നേ ജോബ് എന്ന് വിളിക്കപ്പെടുന്നു അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ തയ്യാറാകുന്നു ഒരു ടാസ്കിന്റെ ഓരോ ഇൻസ്റ്റൻസ് വരവിലും ഒരു ഷെഡ്യൂളിംഗ് പോയിന്റിനെ നിർവചിക്കുന്നു ജോബ് എത്തുമ്പോൾ ഷെഡ്യൂളർ കോഡ് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ഇത് എത്തിച്ചേർന്ന ഒരു ടാസ്ക്കാണോയെന്ന് പരിശോധിക്കുകയും ഇതിനകം എക്സിക്യൂട്ട് ചെയുന്ന ടാസ്കിനെ പ്രീ എംപ്റ്റിംഗ ചെയണോ എന്നു തീരുമാനിക്കുകയും ചെയുന്നു ഇവന്റ് ഡ്രൈവ്എൻ ഷെഡ്യൂളറുകളെ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളറുകൾ എന്നും വിളിക്കുന്നു കാരണം ഒരു ടാസ്ക് എത്തുമ്പോൽ അതിന് ഉയർന്ന മുൻഗണന ഉണ്ടെകിൽ ഇതിനകം നടപ്പിലാക്കുന്ന ടാസ്ക് പ്രീ എംപ്റ്ററ് ചെയപെടുന്നു ഫോർഗ്രൌണ്ട് പശ്ചാത്തല ഷെഡ്യൂളർ എന്ന പേരിലാണ് ഇവന്റ് ഡ്രൈവ്എൻ ഷെഡ്യൂളറുകളിൽ ഏറ്റവും ലളിതമായ ഷെഡ്യൂളർ അടിസ്ഥാന ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോഴ്സായ ഞങ്ങളുടെ ആദ്യ ലെവൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോഴ്സിൽ ഇത് ഇതിനകം പരിചിതമായിരിക്കാം റിയൽ ടൈം അപ്ലിക്കേഷനുകളിൽ പോലും ഫോർഗ്രൌണ്ട് പശ്ചാത്തല ഷെഡ്യൂളർ ഒരു ജനപ്രിയ ഷെഡ്യൂളറാണ് പീരിയോഡിക് അപീരിയോഡിക് സ്പോറാടിക് ജോലികളുടെ മിശ്രിതം നമ്മുടെ പക്കലുണ്ട് പീരിയോഡിക് ടാസ്ക്കുകൾ മുൻഭാഗത്ത് പ്രവർത്തിക്കുന്നു അതിനർത്ഥം ബാക്ക്ഗ്രൌണ്ട് ടാസ്ക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവയ്ക്ക് ഉയർന്ന മുൻഗണന നൽകുന്നു എന്നാണ് ഫോർഗ്രൌണ്ട് ടാസ്ക്കുകൾ നിലവിലില്ലാത്തപ്പോൾ ബാക്ക്ഗ്രൌണ്ട് ടാസ്ക്കുകൾ പ്രവർത്തിക്കാൻ ആരംഭിക്കുകയും റിയൽ ടൈം സാഹചര്യത്തിൽ റിയൽ ടൈം ഡെഡ്ലൈൻ ഉള്ള എല്ലാ ടാസ്ക്കുകളും ഫോർഗ്രൌണ്ട് ടാസ്ക്കുകളായി പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു പീരിയോഡിക് ജോലികളും അതിന്ടെ ഡെഡ്ലൈനും ഇവിടെ കാണിക്കുന്നു ഉദാഹരണത്തിന് ഈ ഡയഗ്രമിൽ പീരിയോഡിക് ടാസ്ക് റിയൽ ടൈം പീരിയോഡിക് ടാസ്ക് ആവർത്തിക്കുന്ന പോയിന്റിനെ വരകൾ നിർവചിക്കുന്നു ഇത് റിയൽ ടൈം ടാസ്ക് ആയതിനാൽ ഇത് ഫോർഗ്രൌണ്ട് ടാസ്ക് ആണ് മറ്റെല്ലാ ബാക്ക്ഗ്രൌണ്ട് ടാസ്ക്കുകളും മാറ്റിസ്ഥാപിച്ച് ഇത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു അതിനാൽ ഇത് പൂർത്തിയാകുമ്പോൾ ബാക്ക്ഗ്രൌണ്ട് ടാസ്ക്കുകൾ പ്രവർത്തിക്കാൻ തുടങ്ങും എന്നാൽ വീണ്ടും പീരിയോഡിക് ടൈമർ ഇന്റെര്പ്ട് വരുമ്പോൾ പീരിയോഡിക് ടാസ്കുകൾ മാറുന്നു എത്തിച്ചേരുന്നു അല്ലെങ്കിൽ തയ്യാറായിരിക്കുന്നു പിന്നെ ഉടൻ അത് തയാർ ആകുമ്പോൾ അതു പ്രവർത്തികാൻ തുടങ്ങുന്നു ഇത് പീരിയോഡിക് ടാസ്ക്കിന്റെ ആദ്യ ഇൻസ്റ്റൻസ് ആണ് ഇത് ബാക്ക്ഗ്രൌണ്ട് ടാസ്ക് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങുമ്പോൾ കാത്തിരിക്കേണ്ടിവരും ഈ ഘട്ടത്തിൽ അത് പൂർത്തിയായതിന് ശേഷം ക്ലോക്ക് ഇന്റെര്പ്ട് ചെയ്യപ്പെടും വരെ ബാക്ഗ്രൌണ്ട് ടാസ്ക് പ്രവർത്തിക്കാൻ തുടങ്ങും ഇത് ഒരു ലളിതമായ ഷെഡ്യൂളറാണ് അവിടെ ഒരു ഫോർഗ്രൌണ്ട ടാസ്ക് ഉള്ളിടത്തോളം അത് പ്രവർത്തിക്കുന്നു എന്നാൽ കൂടുതൽ സങ്കീർണ്ണമായ കേസുകളിൽ ഫോർഗ്രൌണ്ട് ടാസ്കുകൾ ഒന്നിൽക്കൂടുതൽ തരം ഉണ്ടാകാം ഷെഡ്യൂളർ ഏറ്റവും മുൻഗണന ഉള്ള ഫോർഗ്രൌണ്ട ടാസ്ക് തെരഞ്ഞെടുക്കുകയും ഫോർഗ്രൌണ്ട് ടാസ്കുകൾ ആരും നിലവിൽ ഇല്ലാത്തപ്പോൾ മാത്രമേ ബാക്ക്ഗ്രൌണ്ട് ടാസ്ക് ചെയുകയുളൂ ഇതൊരു ലളിതമായ ഷെഡ്യൂളറാണ് ഇതിനെ അടിസ്ഥാനമാക്കി നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യും പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഗണിതശാസ്ത്ര പദപ്രയോഗം ചർച്ച ചെയ്യാം എങ്കിൽ TB പറയുന്നതു ബാക്ക്ഗ്രൌണ്ട് ടാസ്കും അതിന്ടെ പ്രോസസിംഗ് സമയം eB ആണ് ഇവിടെ ബാക്ക്ഗ്രൌണ്ട് ടാസ്കിനു ഒരു ഡെഡ്ലൈൻ ഉള്ളതായി നമ്മൾ കണക്കിലെടുക്കുന്നില്ല ഇവിടെ അതിന്റെ എക്സിക്യൂഷൻ ടൈമിന് അനുസരിച്ച് ബാക്ക്ഗ്രൌണ്ട് സൂചിപ്പിക്കുക ഫോർഗ്രൌണ്ട് ടാസ്ക് p1 ഉം അതിന്റെ എക്സിക്യൂഷൻ സമയം 1 ഉം ആണ് കൂടാതെ നമുക്ക് ഒരു കൂട്ടം ഫോർഗ്രൌണ്ട് ടാസ്ക്കുകളുണ്ട് അതിന്റെ എക്സിക്യൂഷൻ സമയം e i ഉം പിരീഡ് p i ഉം സൂചിപ്പിക്കുന്നു അത്തരം സന്ദർഭങ്ങളിൽ ബാഗ്ഗ്രൌണ്ട് ടാസ്ക് പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും ഫോർമുല eB ബാക്ക്ഗ്രൌണ്ട് ടാസ്കിന്റെ എക്സിക്യൂഷൻ ടൈം ആണ് അതോടൊപ്പം ടാസ്ക് ഓരോ തവണ ei ti എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു ഇത് ei വേണ്ടി റൺ ചെയ്യുന്നു അതോടൊപ്പം എല്ലാ pi കും വേണ്ടി ടാസ്ക് ti ei നേ എക്സിക്യൂട്ട് ചെയ്യുന്നു ഇത് പ്രവർത്തിപ്പിക്കുന്ന സമയത്തിന്റെ അംശം ei pi ആണ് അത്തരം ആനുകാലിക ജോലികളെല്ലാം പരിഗണിച്ചാൽ നമുക്ക് write ei pi എഴുതാം ശേഷിക്കുന്ന സമയത്തിന്റെ ഒരു ഭാഗം പശ്ചാത്തല ടാസ്ക് പ്രവർത്തിപ്പിക്കുന്നതിനായി ഇടുകയും 1 by by നൽകുകയും ചെയ്യുന്നു ei pi അതിനാൽ പശ്ചാത്തല ടാസ്ക്കിന്റെ പൂർത്തീകരണ സമയം eB 1 ∑ ei pi ആയി പ്രകടിപ്പിക്കാൻ കഴിയും ഇവിടെ eB എന്നത് പശ്ചാത്തല ടാസ്ക്കിന്റെ നിർവ്വഹണ സമയമാണ് താഴെ പറയുന്നത് ഒരു ലളിതമായ കേസ് ആണ് ഇവിടെ ഒരു റിയൽ ടൈം ടാസ്ക് ആണ് ഉള്ളത് അത് പീരിയോഡിക് ആണ് അതിന്റെ എക്സിക്യൂഷൻ ടൈം 50തും പിരീഡ് 100റും ഡെഡ്ലൈൻ 100റും ആണ് റഫർ സ്ലൈഡ് സമയത്ത് 2541 p1 e1 ആയിരിക്കണം ഇവിടെ എക്സിക്യൂഷൻ സമയം 50 ഉം പിരീഡ് 100 ഉം സമയപരിധി 100 ഉം ആണ് ബാക്ക്ഗ്രൌണ്ട് ടാസ്കിൻ സംബന്ധിച്ചിടത്തോളം എക്സിക്യൂഷൻ സമയം 1020 മില്ലിസെക്കൻഡാണ് ബാക്ക്ഗ്രൌണ്ട് ടാസ്ക് പൂർത്തിയാക്കുന്ന സമയത്തെക്കുറിച്ചാണ് ഇവിടെ പ്രധാന ചോദ്യം ഇതിനുള്ള പരിഹാരം ഫോർഗ്രൌണ്ട് ടാസ്ക് പ്രവർത്തിക്കുമ്പോഴെല്ലാം അത് 50 മില്ലിസെക്കൻഡിൽ പ്രവർത്തിക്കുന്നു ഇത് ഓരോ 100 മില്ലിസെക്കൻഡിലും ഒരു തവണ പ്രവർത്തിക്കുന്നു ബാക്കിയുള്ള 50 മില്ലിസെക്കൻഡുകൾ ബാക്ക് ഗ്രൌണ്ട് ടാസ്ക് പ്രവർത്തിപ്പിക്കുന്നതിന് ലഭ്യമാണ് ഫോർഗ്രൌണ്ട് യൂട്ടിലൈസേഷൻ 50100 അല്ലെകിൽ 0 5 ബാക്ക് ഗ്രൌണ്ട് ടാസ്ക് കിട്ടുന്ന ടൈം ഫ്രാക്ഷൻ 0 ഇത് ഒരു എക്സ്പ്രഷൻ ഇൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അത് 2040 മില്ലി സെക്കൻഡ് ആണ് ബാക്ക് ഗ്രൌണ്ട് ടാസ്ക് 2040 മില്ലി സെക്കൻഡിൽ പൂർത്തിയാകുന്നു നമ്മൾ അവലോകനം ചെയ്ത ആദ്യ ലെവൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോഴ്സിൽ പോലും ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ ലളിതമായ ഷെഡ്യൂളറാണ് ഫോർഗ്രൌണ്ട് ബാക്ക്ഗ്രൌണ്ട് ഷെഡ്യൂളർ കാരണം ഇത് റിയൽ ടൈം അപ്ലിക്കേഷനുകഇൽ പ്രസക്തിയുണ്ട് എന്നാൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യില്ല കൂടുതൽ സങ്കീർണ്ണമായ ഷെഡ്യൂളറുകൾ റേറ്റ് മോണോടോണിക് ഷെഡ്യൂളർ ആദ്യ സമയപരിധി ആദ്യ ഷെഡ്യൂളർ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പക്ഷേ അടുത്ത പ്രഭാഷണത്തിൽ ഞങ്ങൾ അത് ഏറ്റെടുക്കും ഇപ്പോൾ ഈ പ്രഭാഷണത്തിനായി നമ്മൾ ഇവിടെ നിർത്തും